സെൽ കൾച്ചർ ടെക്നോളജിയുടെ അധ്യയന പരമ്പരയുടെ അടുത്ത ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം ഇനി ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഇതിൽ സർഫസ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ് എസ് ഉപയോഗിക്കാം എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്നാണ് ഇത് ഒരു തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പി ആണ് അവിടെ ഒരു രശ്മിയെ ആണ് പുറപ്പെടുവിക്കുന്നത് അതിൽ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് എന്താണെന്നുവെച്ചാൽ ഒരു തേജസ്സുള്ള രശ്മിയെ ഒരു സബ്സ്ട്രേറ്റിന്റെ മുകളിലോട്ട് പുറപ്പെടുവിക്കുന്നു അതൊരു പ്രത്യേക അളവിൽ മാത്രമേ പാടുള്ളൂ അതിൽ കൂടുതൽ ആവാൻ പാടില്ല ഇനി എന്താണ് ഇവ പുറത്തേക്ക് വിടുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വരയ്ക്കാം ദാ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട് പലനിറത്തിലുള്ള എലമെൻറ്സ് അതിലുണ്ട് അതായത് ചുവപ്പ് നീല പച്ച ഇളംപച്ച പിങ്ക് അങ്ങനെയൊക്കെ അത് കുറച്ചുകൂടി തിരിച്ചറിയാൻ വേണ്ടി കുറച്ചുകൂടി ഇരുണ്ട നിറം കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ഈ ഉപരിതലം കലർന്ന കിടക്കുന്നത് നിങ്ങൾക്ക് ആറ് വ്യത്യസ്തമായ നിറങ്ങളുണ്ട് അല്ലെങ്കിൽ 6 വ്യത്യസ്തമായ ആറ്റം അല്ലെങ്കിൽ എലമെൻറ്സ് ഈ സബ്സ്ട്രേറ്റിൽ ഉണ്ട് ഇനി ഓരോന്നിനും ഓരോ പേരുകൾ കൊടുക്കാം അതായത് നീലക്ക് സിലിക്കൺ silicon കടുംപച്ചക്ക് കാർബൺ ചുവപ്പിന് നൈട്രജൻ ഇളം പച്ചക്ക് ലിഥിയം നിങ്ങൾക്ക് കുറച്ചു കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇളം പിങ്കിന് ഹൈഡ്രജൻ പിന്നെ ഇത് ഓക്സിജൻ ഇനി വരുന്ന രശ്മികളെ ഒരു സ്ഥലത്തേക്ക് പ്രഭവിപിപ്പിക്കുക ഏതു രശ്മിയാണ് നിങ്ങൾ പ്രഭവിപിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യമില്ല അതിനെ നിങ്ങൾ ഉപരിതലത്തിലേക്ക് പ്രഭവിപിപ്പിക്കുക ഇത് ഉപരിതലത്തിൽ എന്തു നടത്തും രശ്മികൾ ഉപരിതലത്തിലോട്ട് വീഴുമ്പോൾ അവിടെയുള്ള ഏറ്റവും പുറത്തുനിൽക്കുന്ന ഇലക്ട്രോണുകളെ പുറത്തേക്ക് തള്ളിവിടും ഞാൻ ഇവിടെ ഓരോ നിറവും ഓരോ ആറ്റം ആയും അല്ലെങ്കിൽ ഓരോ എലമെന്റുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു ഓരോ ഇലക്ട്രോണും പുറത്തേക്ക് വരുന്നത് പലതരത്തിലുള്ള കൈനറ്റിക് എനർജി കൊണ്ടാണ് അതായത് ഓരോ ഇലക്ട്രോണിനെയും പുറത്തേക്കു വിടാൻ ഉപയോഗിക്കുന്ന ഊർജ്ജവും ഓരോ ആറ്റത്തിലും വ്യത്യസ്തമാണ് ഇവിടെ ഓരോ ആറ്റത്തിനും ഓരോ നിറമാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ഡിറ്റക്ടർ ഇവിടെയുണ്ട് അതിന് ഈ വരുന്നവയുടെ വേഗത കണ്ടുപിടിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഈ അവസ്ഥയിൽ 1 2 3 4 5 6 6 വ്യത്യസ്തമായ ഊർജ്ജ മുദ്രയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നിങ്ങൾ ഇവയെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഇവയെക്കുറിച്ചുള്ള ഗ്രന്ഥശേഖരം ഉണ്ടെങ്കിൽ ഭാവിയിൽ ഉള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അതിൻറെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതാണ് ഇതുവച്ച് നമുക്ക് വേറൊരു പരീക്ഷണം നടത്താം ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ശുദ്ധമായ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട് അതിൽ നേരത്തെ പറഞ്ഞ അതേ പരീക്ഷണങ്ങൾ ചെയ്യുക അതായത് ഒരു പ്രത്യേക രശ്മിയെ അവയുടെ മുകളിൽ പ്രഭവിപ്പിക്കുക അപ്പോൾ ഈ ഓരോന്നും ഇലക്ട്രോണിനെ ഒരു പ്രത്യേക വേഗതയിൽ പുറത്തേയ്ക്ക് വിടും നിങ്ങളുടെ കയ്യിൽ നേരത്തെ തന്നെ ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോണിന്റെയും ഊർജ്ജത്തിന്റെ അളവ് പട്ടികയായി ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇവയുടെ മൂല്യം നേരത്തെ അറിയാമെങ്കിൽ ഒരു സബ്സ്ട്രേറ്റിനെ നമ്മൾ നോക്കുമ്പോൾ ഈ മൂല്യങ്ങളെ തിരിച്ച് കണക്കുകൂട്ടി എടുത്താൽ അതിൽ ഏതൊക്കെ എലമെന്റ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയാണ് നിങ്ങളൊരു സബ്സ്ട്രേറ്റിൽ ഏതൊക്കെ എലമെന്റ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നത് ഈ പ്രബലമായ ആയുധം കൊണ്ട് കെമിസ്റ്റ് ബയോകെമിസ്റ്റ് മെറ്റീരിയൽ സയൻറിസ്റ്റ് എന്നിവർക്ക് സർഫസ് കെമിസ്ട്രിsurface chemistry മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ജോലി ചെയ്യുന്നവർ അതുപോലെതന്നെ ഇലക്ട്രോഡുകളുമായി മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഇവിടെ അവർ നോക്കുന്നത് സർഫസ് ഫിനോമിനൺ ആണ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇവിടെ സർഫസ് ഫിനോമിനൺ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ഇവിടെ ഒരു സബ്സ്ട്രേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് സബ്സ്ട്രേറ്റ് ഇതിലേക്ക് കോശങ്ങൾ ഒട്ടിപ്പിടിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സർഫസ് ഇൻട്രാക്ഷനിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരാൾ ഇവിടെ നിരീക്ഷിക്കേണ്ടത് സർഫസ് ഇൻട്രാക്ഷനിനെ കുറിച്ചാണ് അത് വളരെ സൂക്ഷിച്ചു നിരീക്ഷിക്കേണ്ടതാണ് ഇത് വളരെ പ്രബലമായ ഒരു ആയുധമാണ് നമ്മൾ അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു വസ്തുവിൻറെ ബൾക്ക് പ്രോപ്പർട്ടി അല്ല അതിൻറെ സർഫസ് ഇൻട്രാക്ഷൻ ആണ് കോശങ്ങൾ അതിൻറെ ഉപരിതലവും ആയി ഉണ്ടാക്കുന്ന സർഫസ് ഇൻട്രാക്ഷൻ ആ ഉപരിതലം ഏതുമാകാം അവിടെയുണ്ടാകുന്ന ഇൻട്രാക്ഷൻ ഇവിടെ ചുവപ്പുനിറത്തിൽ കാണിക്കുന്നു നിങ്ങൾക്ക് ആ വസ്തുവിൻറെ സർഫസ് കെമിസ്ട്രി അറിയില്ലെങ്കിൽ അവിടെ എത്രമാത്രം ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആര് ആരുമായി ആണ് ബന്ധിച്ചിരിക്കുന്നത് എന്നു മനസ്സിലാക്കാൻ പറ്റില്ല ഈ സാങ്കേതികവിദ്യ അത്ര ശക്തിയേറിയതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ചുവപ്പ് നോക്കുക ഇത് നൈട്രജൻ ആണ് എന്ന് വിചാരിക്കാം അപ്പോൾ എത്ര വേഗത്തിലാണ് ഇലക്ട്രോണുകൾ ഇത് പുറത്തേക്ക് വിടുന്നത് എന്ന് നോക്കുക ഏത് ഓർബിറ്റിൽ നിന്നാണ് ഇത് പുറത്തു വരുന്നത് എന്ന് നോക്കുക കൂടുതലും ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിൽ നിന്ന് ആയിരിക്കാം വരുന്നത് ഈയൊരു സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത്രയും ഉള്ളിൽ കടന്ന് ഇവയെ കുറിച്ച് പഠിക്കാൻ സാധിക്കും പക്ഷെ ഓർക്കുക എപ്പോഴും ഓർക്കുക ഞാൻ ഇവിടെ സർഫസ് ഫിനോമിനൺ നെ കുറിച്ചാണ് പറയുന്നത് ബൾക്ക് മെറ്റീരിയൽസിനെ കുറിച്ച് അല്ല നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൾക്ക് പ്രോപ്പർട്ടിയെ കുറിച്ച് അല്ല ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഉപരിതലത്തെ കുറിച്ചു മാത്രമാണ് ഉപരിതലത്തിൽ ഉണ്ടാവുന്ന രാസമാറ്റത്തെക്കുറിച്ച് അവിടെ ആകർഷകമായ സമ്പർക്കമുഖവും ഉണ്ട് നമ്മൾ അതിനെ കുറിച്ച് അല്ല ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അത് ഏത് സർഫസ് ഫിനോമിന ആയിരുന്നാലും അതിനെ നിരീക്ഷിക്കേണ്ടതുണ്ട് അതിൽ ഉള്ള എലമെൻസ് ഏതൊക്കെയാണ് എന്ന് നിരീക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉപരിതലം ഉണ്ട് ഉപരിതലത്തിൽ നിറയെ കാർബൺ ഉണ്ട് എന്ന് വയ്ക്കുക അപ്പോൾ ഇതുവെച്ച് നിങ്ങൾക്ക് ഈ സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അതിൽ അളക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അത് കുറച്ച് കളിപ്പിക്കുന്നത് ആണ് നിങ്ങൾക്ക് അവിടെയുള്ള കാർബൺ നൈട്രജൻ അതുപോലെ മറ്റ് എലമെൻസും എത്രയുണ്ട് എന്ന് അളക്കാൻ സാധിക്കും അവയുടെ അനുപാതസംഖ്യ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് CarbonNitrogenSiliconLithium എന്നു വരുമ്പോൾ അവിടെ നമുക്ക് 5120 5 ഇങ്ങനെ സംഖ്യകൾ ഇട്ടുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ഇതിൻറെ രാസസംയോഗം എന്ന് അപ്പോൾ ഞാൻ ഈ സബ്സ്ട്രേറ്റ് ഇതിൻറെ മുകളിൽ വെക്കുമ്പോൾ ഈ വസ്തുക്കൾ ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ട്രേറ്റിന്റെ ഗുണമേന്മ മാത്രമല്ല അവയുടെ അളവും നിർണയിക്കാൻ പറ്റും ഇത് വളരെ പ്രബലമായ ഒരു ആയുധമാണ് പക്ഷേ എല്ലാ ബയോളജിസ്റ്റും ഇത് ഉപയോഗിക്കാറില്ല സെൽ കൾച്ചറിൽ തീവ്രമായി ജോലി ചെയ്യുന്നവർ ഇത് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ നിരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ കോൺടാക്ട് അങ്കിളിനെ അളക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു കോൺടാക്ട് അങ്കിളിനെ അളന്നെടുക്കാൻ വേണ്ടി നമുക്ക് ഗോണിയോമീറ്റർ ഉപയോഗിക്കാം അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് സർഫസ് അനാലിസിസ് ചെയ്യണമെങ്കിൽ ഒരു എ എം അവിടെ നമ്മൾ സജ്ജീകരിക്കണം അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ സർഫസ് അനാലിസിസ് ആണ് ചെയ്യുന്നത് പിന്നെ കോൺടാക്ട് ആംഗിൾ അളക്കുന്നതിലൂടെ നിങ്ങൾ ഒരു വസ്തുവിൻറെ വെള്ളം ആയിട്ടോ അല്ലെങ്കിൽ ദ്രാവകങ്ങളും ആയിട്ടോ ഉള്ള സമ്പർക്ക സ്വഭാവമാണ് മനസ്സിലാക്കുന്നത് അതിൽ അവയുടെ ഗുണമേന്മയും അളവും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും അപ്പോൾ ഒരു ഉപരിതലത്തെ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉപരിതലത്തെ നിരീക്ഷിക്കാനുള്ള യന്ത്രങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനുള്ള അധികാരം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അന്യമായ ഒരു മെറ്റീരിയൽ തരുകയാണ് എന്ന് വിചാരിച്ചോളു നാച്ചുറൽ ആണോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല യാദൃശ്ചികമായ വസ്തു അതാണ് തരുന്നത് എങ്കിൽ നിങ്ങൾ അതുമായി എങ്ങനെ ജോലി ചെയ്യും ശാസ്ത്രീയമായി എങ്ങനെ നിങ്ങൾ മുന്നോട്ടുപോകും ആദ്യം നിങ്ങൾ പല അളവിൽ ഇതിനെ അലിയിക്കാൻ നോക്കുക അത് വെള്ളത്തിൽ അലിയുന്നതാവണം വെള്ളത്തിൽ അലിയാത്തത് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ച് ജോലി ചെയ്യാൻ പറ്റും അത് വെള്ളത്തിൽ അലിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളം അല്ലാത്ത ദ്രാവകത്തിൽ നമുക്ക് അതിനെ അറിയിക്കാൻ സാധിക്കും അവയെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അളക്കുക തന്നെ ആയിരിക്കണമെന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവയെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നല്ല കാരണം നിങ്ങൾ പലയിടത്തും ചെന്ന് പല ശാസ്ത്രീയമായ പ്രയത്നങ്ങൾ ചെയ്തെന്നിരിക്കും ഇവിടെ പ്രധാനമായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ആവനാഴിയിൽ ഏതൊക്കെ ആയുധങ്ങളാണ് ഒരു ഉപരിതലത്തെ നിരീക്ഷിക്കാൻ വേണ്ടി ഉള്ളത് എന്ന് അപ്പോൾ പ്രധാനമായും ഈ 3 എണ്ണമാണ് നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഇനി നിങ്ങൾ ഈ ഉപരിതലത്തിൽ ഉള്ള ഓരോ കോൺസെൻട്രേഷനിനേയും അടയാളപ്പെടുത്തുക കോൺസെൻട്രേഷൻ 1 കോൺസെൻട്രേഷൻ 2 കോൺസെൻട്രേഷൻ 3 കോൺസെൻട്രേഷൻ ഫോർ നമ്മുടെ ഇപ്പോഴത്തെ ആണ് ഉള്ളത് ഇതെല്ലാം വെള്ളത്തിലാണ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇനി ഞാൻ എ എഫ് എം എടുക്കുന്നു 4 എ എഫ് എം ചിത്രങ്ങളാണ് എൻറെ കയ്യിൽ ഉള്ളത് അതിൻറെ മുകളിൽ ഞാൻ ഗോണിയോമീറ്റർ ഉപയോഗിച്ച് കോൺടാക്ട് ആംഗിൾ അളക്കുന്നു ഇപ്പോൾ എനിക്ക് അറിയാം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളതെന്ന് കോൺസെൻട്രേഷൻ കൂട്ടുകയും കുറക്കുകയും ചെയ്യുമ്പോൾ ഹൈഡ്രോഫോബിസിറ്റി അല്ലെങ്കിൽ ഹൈഡ്രോഫിലിസിറ്റി മാറുന്നുണ്ടോ എന്ന് മറ്റൊരു സാങ്കൽപ്പിക സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു മാറ്റവും വരില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ പരീക്ഷണം ചെയ്തു നോക്കാവുന്നതാണ് അതായത് ഇത്രയും മില്ലിഗ്രാം ഒരു ml ൽ ഇട്ടാൽ ഇതായിരിക്കും ഞാൻ കാണാൻ പോകുന്നത് പിന്നെ Y ഞാൻ ഒരു ml ൽ ഇട്ടാൽ ഉപരിതലത്തിൽ ഞാൻ കാണാൻ പോകുന്നത് ഇങ്ങനെയിരിക്കും അതിനുശേഷം ഞാൻ z മില്ലിഗ്രാം ഒരു ml ൽ ഇട്ടാൽ കാണാൻ പോകുന്നത് ഇതായിരിക്കും ഓരോ അളവിലും നിങ്ങൾക്ക് ഓരോ തരത്തിലുള്ള ഇൻട്രാക്ഷൻ കാണാൻ സാധിക്കും ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ സർഫസ് കെമിക്കൽ അനാലിസിസ് നടത്താം അതിലൂടെ ഉപരിതലത്തിലുള്ള എലമെൻറ്സുകളുടെ ആറ്റത്തെ കുറിച്ച് പഠിക്കാൻ സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ അവിടെ വരാൻ പോകുന്ന എല്ലാത്തരം ഇൻട്രാക്ഷനുകളെ കുറിച്ചും നിങ്ങൾക്ക് ഒരു നിഗമനത്തിലെത്താൻ സാധിക്കും ഇനി നമ്മൾ പല തരത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിനെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് അപേക്ഷിക്കാൻ ഉള്ളത് ഈ ആയുധങ്ങളെ കുറിച്ച് ഓർത്തു വെക്കുക എന്നാണ് എതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊകെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം